അവസാന പ്രഭാഷണത്തിൽ നിന്ന് തുടരുമ്പോൾ നമ്മൾ നെറ്റ്വർക്കുകളെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഒരു ആശയം ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു എങ്ങനെയാണ് ഒരു ചെറിയ സ്റ്റിമുലസ്ൽ നിന്നും റിസപ്റ്റീവ് ഫീൽഡ് വർദ്ധിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ബ്രെയിയിനിൽ അത് എത്തുമ്പോഴേക്കും അവിടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഫീഡ്ബാക്ക് ഉണ്ടാകുന്നു എന്നും നിങ്ങൾക്കറിയാം ഇത് ഒരു ഫംഗ്ഷണൽ ഫ്രെയിംവർക്ക് പോലെയാണ് വിശദമായി മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ ഒരു സെന്സറി ഇൻപുട്ട് ഉണ്ട് കേൾവി കാഴ്ച എന്നിവയെകുറിച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു റിസപ്റ്ററുകളും ന്യൂറോണുകളും വ്യത്യസ്തമായി കേൾക്കുന്നതിനെകുറിച്ച് സംസാരിക്കുന്നതിന് കാരണം അവ വ്യത്യസ്ത തരം എനർജി ട്രാൻസ്ഫർ ആണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് സെൻസറി ബഫർ ചെയ്യുന്നു ഇവയാണു സെൻസറി ബഫറുകൾ ഇവയാണു നിങ്ങളുടെ സെൻസ് ഓർഗനുകൾ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇതൊരു പെർസെപ്ച്വൽ മെമ്മറിയാണ് വോളണ്ടറി അറ്റൻഷൻ ആണ് നിങ്ങൾ മുകളിൽ നിന്നും താഴേക്ക് കണ്ടത് ഇതാണ് ഫംഗ്ഷണൽ ഫ്രെയിംവർക്ക് അതായത് എന്താണ് സംഭവിക്കുന്നത് ഇതാണ് സ്റ്റോറേജ് ഇവയാണ് വെർബൽ റിഹേഴ്സൽ ഇവിടെയാണ് വിഷ്വൽ സ്പെഷ്യൽ സ്കെച്ച് പാക്ക് ഇത് സെൻട്രൽ എക്സിക്യൂട്ടീവ്ലേക്ക് പോകുന്നു സെൻട്രൽ എക്സിക്യൂട്ടീവ് ആണ് ആക്ഷൻ പ്ലാനിങ്ങും ഔട്ട്പുട്ട് റസ്പോൺസും തീരുമാനിക്കുന്നത് അതിനാൽ മെക്കാനിക്കൽ എനർജി ഒരു സ്പർശനത്തിന് രൂപത്തിലാണ് ആണ് വരുന്നത് അവസാനം എല്ലാ ഇലക്ട്രോ കെമിക്കൽ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ബ്രെയിനിലേക്ക് എത്തുന്നു നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ ചലനം എന്നിവ എനർജി സൈക്കിളിലേക്ക് പോകുകയും പൂർത്തിയാവുകയും ചെയ്യുന്നു ഇത് ഇങ്ങനെ നടക്കണമെന്നില്ല ഞാൻ നിങ്ങൾക്ക് ഒരു ആശയം മാത്രമാണ് നൽകുന്നത് റസ്പോൺസ് ഔട്ട്പുട്ട് ഇല്ലായെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തു ഉള്ളിലേക്ക് വന്നാലും അത് ചിന്തയിലേക്ക് പോയാലും അവിടെ എന്താണ് സംഭവിക്കുന്നത് അതായത് മെക്കാനിക്കൽ നിന്ന് ഇലക്ട്രോ കെമിക്കൽ ആയുള്ള മാറ്റവും വീണ്ടും മെക്കാനിക്കൽ ആയിട്ടുള്ളതും അതിശയകരമായ ലീനിയർ മാറ്റമാണ് മെക്കാനിക്കൽ ഇലക്ട്രോ കെമിക്കൽ ചിന്ത എന്നിവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം നമ്മൾക്ക് അറിയില്ല ഇപ്പോൾ നിങ്ങൾ ഈ ലോക വിസ്കോസ് സ്പെഷ്യൽ സ്കെച്ച്പാഡ് കാണുന്നു ഇതിനുള്ളിൽ നിങ്ങൾ ഭാഷയെക്കുറിച്ചോ സംസാരത്തെ കുറിച്ചോ പറയുമ്പോൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക ഞാൻ നിങ്ങളോട് പെൻ എന്ന് പറയുന്നു നിങ്ങൾ ഈ പേനയെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുന്നു നിങ്ങൾക്കറിയാം രണ്ടു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ഒരെണ്ണം P E N ആണ് ഇത് എപ്പോഴും നിങ്ങളുടെ ബ്രെയിനിൽ രൂപംകൊള്ളുന്നു നിങ്ങൾ പേനയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഓറൽ സ്കെച്ച് പാട് ഉണ്ട് അതായത് ഞാൻ സംസാരിക്കുമ്പോൾ പോലും അവിടെ ഒരു വിഷ്വൽ സ്കെച്ച് പാട് ഉണ്ട് ഞാൻ സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ എൻറെ മനസ്സിൽ ഇതിനകം S P E A K I N G എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഞാൻ എപ്പോൾ സംസാരിക്കുമ്പോഴും ഓറൽ ആയി ഒരു ഔട്ട് ലഭിക്കും ഒരുതരം ഓഡിയോ സ്കെച്ച് പാടാണ് അതിനോടൊപ്പം തന്നെ ഒരു വിഷ്വൽ സ്കെച്ച് പാടും രൂപംകൊള്ളുകയും അത് പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്നു സാധാരണയായി നമ്മൾ തിരിച്ചറിയാറില്ല കാരണം നമ്മൾ സംസാരത്തിൽ മുഴുകി ഇരിക്കാം നിങ്ങളുടെ മനസ്സിനെ സംഭാഷണം ആയി അല്ലാതെയും രണ്ടായി തിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ അതിൽ കാര്യമുണ്ട് ഞാൻ ദെയർ എന്ന് പറയുമ്പോൾ T H E R E എൻറെ മനസ്സിൽ രൂപം കൊള്ളുന്നു ഒരുപക്ഷേ ഇത് നെറ്റ് വർക്ക് പ്രോബ്ലം കൊണ്ട് ഉണ്ടാകുന്നതാണ് ഇതാണ് ഡിസ്ലെക്സിയയിൽ സംഭവിക്കുന്നത് ഒരുപാട് ഡിസ്ലെക്സിക് കുട്ടികൾ എന്താണ് അവർ പറയുന്നത് അത് എഴുതാറുണ്ട് ഒരുപക്ഷേ അവരുടെ പഠന സമയത്ത് ആ സ്പെല്ലിങ് പാറ്റേൺ രൂപം കൊണ്ടിട്ടില്ല ഇപ്പോൾ എവിടെയാണ് ഈ സ്പെല്ലിങ് കൾ ഞാൻ ഒരു നിമിഷത്തേക്ക് നിർത്തുന്നു ഇത് വളരെ റോസി ആയി കാണപ്പെടുന്നു എന്നാൽ അത് അത്ര റോസി അല്ല അവിടെയാണ് ക്വാണ്ടം ഭൌതികശാസ്ത്രവും ബാക്കി കാര്യങ്ങളും ചുവടുവെച്ചത് ഇത് നോൺലീനിയർ ആണ് ഒരുപാട് ഇൻ പുട്ടുകൾ വരികയും പ്രോസസ്സിംഗ് യൂണിറ്റ് എല്ലാ ഡേറ്റയും ശേഖരിക്കുകയും അതിൻറെ മറ്റൊരു തലം സൃഷ്ടിക്കുകയും ചെയ്യുന്നു മെസോസ്കോപ്പിക് സ്കെയിലിൽ ഒരുപാട് നോൺലീനിയർ പ്രക്രിയ നടക്കുന്നു ബ്രെയിനിലെ ക്വാണ്ടം പ്രക്രിയയെകുറിച്ച് ആളുകൾ മൈക്രോസ്കോപ്പിക് ട്യൂബുലുകൾ തലത്തിലും ഹയർ തലത്തിലും സംസാരിക്കുന്നുണ്ട് ഹയർ തലത്തിലെ പ്രശ്നം എന്താണെന്നാൽ സ്കെയിൽ സമയം മില്ലിസെക്കൻഡിലാണ് ഉള്ളത് 10 നിന്നും പവർ മൈനസ് 3 ലേക്ക് ക്വാണ്ടം പ്രക്രിയയിൽ 10 നിന്നും പവർ മൈനസ് 12 ലേക്ക് 15 ലേക്ക് 10 നിന്നും 6 ലേക്കുള്ള പവർ മാറ്റവും 10 നിന്നും 8 ലേക്കുള്ള പവർ മാറ്റവും ഉള്ള വ്യത്യാസം ഇന്നും നമ്മൾക്ക് അറിയില്ല പക്ഷേ ഇത് വളരെ ആകർഷകമായതാണ് സ്റ്റിമുലസ് ഉള്ളിലേക്ക് പോകുമ്പോൾ നേർവുകളെല്ലാം വളരെ സൂക്ഷ്മമായ വിവരങ്ങൾ വഹിക്കുന്നു ഇവിടെ ന്യൂറോണുകൾ തമ്മിൽ ഉള്ള ക്രോസ് കണക്ഷൻ ഇല്ല ഈ പ്രക്രിയ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല ഇവയാണ് ന്യൂറോണുകളുടെ സൂക്ഷ്മമായ വിവരങ്ങൾ ഫീച്ചർ എക്സിഷനുകൾ വഹിച്ച് അവ ക്രോസ് കണക്റ്റുചെയ്തിട്ടില്ല അവ നെറ്റ് വർക്കുമായി മാത്രമാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഈ സൂക്ഷ്മമായ വിവരം വീണ്ടും കൂടിച്ചേർന്ന് ഇന്ന് ഒരു യൂണിറ്ററി ഇമേജ് രൂപംകൊള്ളുകയും അതാണ് നമ്മൾക്ക് അറിയാൻ കഴിയാത്തത് ആയതിനാൽ ഈ മുഴുവൻ നെറ്റുവർക്കുകളും നമുക്ക് വിശദമാക്കാൻ കഴിയില്ല രണ്ടാമതായി അവിടെ ഒരു നിർദ്ദിഷ്ട നമ്പർ ഉണ്ടെങ്കിൽ എല്ലാ കൂട്ടം വിവരങ്ങൾക്കും ഒരു നിർദിഷ്ട സ്റ്റേഷൻ ഉണ്ടായിരിക്കും ബ്രെയിൻ പിന്നീട് ആ വ്യതിയാനങ്ങളിലേക്ക് പോകുകയും വളരെ വേഗം അതു സീലിങ് ചെയ്യുന്നു കണക്ക് കൂടുകയാണെങ്കിൽ 14 20 15 ശതമാനം മാത്രമേ ബ്രെയിൻ ഉപയോഗിക്കുന്നുള്ളൂ ഇതിന് ഇനിയും ശതകോടിയോളം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയും സൈദ്ധാന്തികമായി പറയുകയാണെങ്കിൽ മൂന്നാമത്തെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം അസോസിയേറ്റ് ലേർണിംഗ് ആണ് ഒരിക്കൽ സ്റ്റിമുലസ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മെമ്മറി രൂപംകൊള്ളുന്നു അതേ സ്റ്റിമുലസ് അതേ സൂക്ഷ്മമായ രീതിയിൽ പിന്നീടൊരിക്കലും ലഭിക്കണമെന്നില്ല അതൊരിക്കലും വ്യക്തവും ആകില്ല പക്ഷേ അതേ എനർജിയെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു നാലാമത്തെ വസ്തുത എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ നടക്കുന്നത് മില്ലി സെക്കൻഡുകളിലാണ് മില്ലി സെക്കൻഡുകൾ 5 തൊട്ട് 120 മീറ്റർ അളവിലാണ് നിങ്ങളോട് അക്സോണുകളിൽ പറഞ്ഞതുപോലെ ഇതിന് ഭൌതിക ഭാഗങ്ങൾ വിശദീകരിക്കാൻ കഴിയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് കേൾക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ അനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് പെട്ടെന്ന് കണ്ണുകൾ അടയ്ക്കാനും നിങ്ങളുടെ അമ്മുമ്മ ഗ്രാമത്തിൽ ഇരിക്കുന്നതായിചിന്തിക്കാനും പറയുന്നു പക്ഷേ ഞാൻ നിങ്ങളോട് അവരുടെ മുഖത്തുള്ള ഒരു സിഗ്നൽ പറയാൻ പറഞ്ഞാൽ അതിന് ഒരുപാട് സമയമെടുക്കും പ്രകാശവേഗത ചിന്തകൾ ചിന്തകൾ വഹിക്കുന്നത് എന്താണോ അതൊരു ക്വാണ്ടം ഫീൽഡ് ആണ് ശരിക്കും നമ്മൾക്ക് അറിയില്ല ഇതാണ് വലിയ പ്രശ്നം നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ധാരാളം പുതിയ ഭൌതികശാസ്ത്രങ്ങൾ കടന്നുവരുന്നു അതിൽ തന്നെ ക്വാണ്ടത്തെക്കുറിച്ചും മറ്റും ഉള്ള പുതിയ ഭൌതികശാസ്ത്രവും ഉണ്ട് ഈ ചോദ്യങ്ങളെല്ലാം ഉയർന്നുവന്നിരിക്കുന്നത് ന്യൂറോണുകളുടെ തലങ്ങളെകുറിച്ചുള്ള നമ്മുടെ ധാരണകൾ വിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ് ഈ പെരുമാറ്റം തലം പുതിയ ഒരു കാര്യമല്ല ട്രാൻസ്നാഷനൽ ന്യൂറോ സയൻസ് എന്ന പുതിയ ശാഖ പരീക്ഷണങ്ങളിൽ നിന്ന് പെരുമാറ്റങ്ങളിലേക്കുള്ള മാറ്റത്തിൻറെ ഭാഗമായി ഉണ്ടായതാണ് അവ ഇതെല്ലാം ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഇനിയും അവിടെ ഒരുപാട് വിടവുകൾ ഉണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് വിഷമകരമായ പ്രശ്നമാണ് ഇത് ബ്രെയിനിൻറെ ബിഹേവിയർ ബന്ധങ്ങളെക്കുറിച്ചുള്ള താരതമ്യ സമാന്തരവാദമാണ് ഒരുപാട് സ്പീഷീസുകൾ സ്ഥലത്തിന് പുറത്ത് തോന്നിയേക്കാം അവയെല്ലാം ന്യൂറോണുകൾക്ക് വേണ്ടി കൂട്ടി ചേർക്കപ്പെടുന്നു ഈ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഭയത്തിൽ എങ്ങനെയാണ് പഠനം നടക്കുന്നത് ഞങ്ങൾക്ക് ഞണ്ടിനെ അല്ലെങ്കിൽ ചിലന്തിയെ കാണാൻ കഴിയുന്നുണ്ട് നിങ്ങളുടെ കണ്ണുകളിലൂടെ അതിൻറെ രൂപം ഉള്ളിലേക്ക് പോകുകയും സെന്സറി കോർട്ടക്സിൽ എത്തുകയും ചെയ്യുന്നു ഇതാണ് എമിക് ഡെല്ല ഭയത്തിൻറെയോ ഭീഷണിയുടെയോ ഫലമായി ഇത് എപ്പോഴും ഉത്തേജിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഇതാണ് അതിൻറെമുഴുവൻ രൂപവും ഇതാണ് അതിൻറെ വൈകാരികമായ പെരുമാറ്റം ഇത് അവിടേക്ക് വരികയും നിങ്ങളുടെ വിയർപ്പ് പ്യൂപ്പിളറി ഡിലേഷൻ ഓട്ടോണോമിക് പ്രതികരണത്തിലൂടെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു സിമ്പതെറ്റിക് അല്ലെങ്കിൽ പാരാ സിമ്പതെറ്റിക് നാഡീവ്യൂഹം പോലെയോ നിങ്ങളുടെ വയറ്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പോലെയോ വിയർക്കുന്നത് പോലെയോ വിറയൽ പോലെയോ ആണ് ഇത് കോർട്ടിസോളുകളുടെ ഹോർമോൺ പ്രതികരണം അവിടെ ഉണ്ടാവുന്നു അല്ലെങ്കിൽ സ്ട്രസ് ഹോർമോണുകൾ മുകളിലേക്ക് പോവുകയും അവിടെ ബ്രെയിൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതിനാൽ ഗ്രേവിയ ഹൈപ്പോ തലാമസ് ബാഡ് ന്യൂക്ലിയസ് ഇന്ദ്രിയ അവയവങ്ങൾ തലാമസ് എന്നിവ എല്ലാം ഉത്തേജിക്കപ്പെടുന്നു അപകടകരമായ ഞണ്ടു പോലെയുള്ള വസ്തുക്കളിൽനിന്നും ലഭിക്കുന്ന ഇന്ന് ചെറിയ പ്രതികരണം പോലും നിങ്ങളിലേക്ക് വരികയും നിങ്ങളുടെ വിഷ്വൽ ഇമേജിനെ മാത്രമല്ല ഉണർത്തുന്നത് അത് നിങ്ങളുടെ എമിക് ഡെല്ലയും ഉണർത്തുന്നു നിങ്ങളുടെ ഹോർമോണുകൾ നിങ്ങളുടെ വൈകാരിക പെരുമാറ്റങ്ങൾ എന്നിവയെല്ലാം പ്രതികരണത്തിനായി തയ്യാറെടുക്കുന്നു എന്താണ് വൈകാരിക പെരുമാറ്റം നിങ്ങൾ ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന ഇമോഷനുമായി ബന്ധപ്പെട്ട മനശാസ്ത്ര തിയറിയെ കുറിച്ച് കേട്ടിട്ട് ഉണ്ടാകാം ഇമോഷനിലേക്ക് വരുമ്പോൾ ആദ്യമായി നിങ്ങൾക്ക് ശാരീരിക സംവേദനമാണ് ലഭിക്കുന്നതെങ്കിൽ അതിനുശേഷം വൈകാരികത അനുഭവപ്പെടുന്നു ആദ്യം വൈകാരികതയാണ് ലഭിക്കുന്നതെങ്കിൽ പിന്നീട് ശാരീരിക സംവേദനം അനുഭവപ്പെടുന്നു നിങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വൈകാരികമായ മാറ്റമാണ് അവിടെ നടക്കുന്നത് ഭയം എന്നൊന്നില്ല നിങ്ങളുടെ ചിന്തകൾ ആണ് ഭയം ഉളവാക്കുന്നത് വൈകാരികമായി ബന്ധപ്പെട്ടുള്ള ജെയിംസ്ൻറെത് മുതലുള്ള എല്ലാ സിദ്ധാന്തങ്ങളും സിംഗർ കാനൺ ബട്ട് എന്നിവ ചർച്ചാവിഷയം ആകുമ്പോൾ ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ വൈകാരികത ഉളവാക്കുകയും വൈകാരികത ഉണ്ടാവുമ്പോൾ ശാരീരികമാറ്റങ്ങൾ സംഭവിക്കുന്നു അടിസ്ഥാനമായി ഒരു വൈകാരികത ലഭ്യമാകുമ്പോൾ അതിന് നിങ്ങൾ ഒരു വൈജ്ഞാനിക വിലയിരുത്തൽ നൽകുന്നു അതിനുശേഷം നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നു ഇപ്പോഴും ചില ധാരണകൾ വ്യക്തമായിട്ടില്ല ഇതാണ് അസോഷ്യേറ്റിവ് ലേർണിംഗ് കണ്ണ് മിന്നുന്നത് പോലെ ഞാൻ ഹോപ്ഫീൽഡ് നെറ്റ്വർക്കിലേക്കും ഹേബിയനിലേക്കും ആയിരുന്നു എന്തുകൊണ്ടാണ് മിന്നുന്നത് അതായത് സ്റ്റിമുലസ് ഉള്ളിലേക്ക് പോകുകയും ഇതുപോലെയാണ് അതു പോകുന്നത് കണ്ടീഷൻ ചെയ്യപ്പെട്ട സ്റ്റിമുലസ് ഇതാണ് പാവ്ലോവിൻറെ അസോഷ്യേറ്റിവ് ലേർണിംഗ്ൽ ഒരു നായ മണി ശബ്ദത്തിനു പോലും ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്നു ഇതാണ് അസോഷ്യേറ്റിവ് പാപ്പസ് സർക്യൂട്ടറി ഒരു സർക്യൂട്ടാണ് ഇത് നിയോകോർട്ടെക്സിലെ സർക്യൂട്ടാണ് ഇവിടെയാണ് ഹയർ തിങ്കിങ് നടക്കുന്നത് സിങ്കുലേറ്റ് ക്യൂറാസ് ന്യൂക്ലിയോളസ് തലാമസ് വീണ്ടും തലാമസ് ഹിപ്പോ തലാമസ് ഈ സർക്യൂട്ടിൽ ആണ് ഇമോഷണൽ ഫയറിങ് നടക്കുന്നത് ഇവിടെയാണ് പാപ്പസ് സർക്യൂട്ടിൽ പഠനം നടക്കുന്നത് ഇതിനു നാശം സംഭവിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങളുടെ പെട്ടെന്നുള്ള പഠനവും വൈകാരികമായ പഠനവും തുടരും പഠനം എല്ലായ്പ്പോഴും വളരെയധികം ചിന്തകളോടെ മുന്നോട്ട് പോകില്ല നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് പോകുന്ന നിങ്ങളുടെ ചിന്തകൾ എല്ലാം വളരെയേറെ വൈകാരികത ഉള്ളതാണ് ഈ സർക്യൂട്ട് ഗൈറസ്സിനെ സിംഗുലേറ്റ് ചെയ്യുന്നു ഹിപ്പോ കാമ്പസിലാണ് പഠനം നടക്കുന്നത് അവിടെയുണ്ടാകുന്ന റിവർബറേഷനും റിപ്പീറ്റഡ് ഫയറിങ്ങും പഠനത്തെ കൂടുതൽ സ്ഥിരതയുള്ളതാക്കാൻ സഹായിക്കുന്നു പക്ഷേ ഇത് എപ്പോഴും വൈകാരികത പ്രകടമാക്കുന്നതും വൈകാരികത ഉള്ളതും ആയിരിക്കും അതിനാൽ ഇത് അടിസ്ഥാനപരമായി ലിംബിക് വൈകാരിക സർക്യൂട്ട് ആണ് തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് ഫീനിക്സ് ഗേജ്നെക്കുറിച്ച് സംസാരിച്ചത് ഓർക്കുന്നില്ലേ എങ്ങനെയാണ് അവൻറെ വ്യക്തിത്വം മാറിയത് ഇപ്പോഴും കണ്ടെത്തേണ്ടത് ആയിട്ടുണ്ട് ബ്രെയിനിലെ അഗാധമായ ഭാഗങ്ങൾ ആണോ ഇതിനുത്തരവാദി എന്നുള്ളതാണ് ചർച്ചാവിഷയം ബ്രെയിനിലെ ഹയർ തിങ്കിംഗിൽ വൈകാരികത ഇല്ല ഇത് ഇങ്ങനെ അല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് ടാമ്പിംഗ് വടി ഉപയോഗിച്ച് ഈ വ്യക്തിക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ സെക്ഷ്വൽ ബിഹേവിയർ സോഷ്യൽ ബിഹേവിയർ അവൻ ഒരുപാട് മാറ്റങ്ങൾ കാണിച്ചിരുന്നു അത് എല്ലായ്പ്പോഴും കോഗ്നിഷനുമായി ബന്ധപ്പെട്ടതല്ല കേടുപാട് സംഭവിച്ചത് ഫ്രണ്ടൽ ലോബിലാണ് അതൊരു ഒരു സൂചന മാത്രമാണ് വിഷാദം ബാധിച്ച ആളുകളുടെ ബ്രെയിനിലെ എംആർഐ ഇ ജി മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിനാൽ ഹൈപ്പോ ഫങ്ക്ഷണാലിറ്റിയും ഓർബിറ്റോഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ലീഷനുകളും വികാരങ്ങളെ ബാധിക്കുന്നു ഈ ചിന്ത ബ്രെയിനിൻറെ ഇമോഷണൽ ആയിട്ടുള്ള തലം വളരെ ആഴത്തിലുള്ളതാണ് എന്നും കോർട്ടിക്കൽ ബ്രെയിൻ ആണ് എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനമെടുക്കുന്നതും അത് അബ്സ്ട്രാക്റ്റ് ജഡ്ജ്മെൻറ് ആയിരിക്കും ഇതിനു അതുമായി യാതൊരു ബന്ധവുമില്ല എപ്പോഴും അത് ശരിയാകണമെന്നില്ല സജീവമായ ഓർബിറ്റോഫ്രോണ്ടൽ കോർട്ടെക്സിന് കീഴിലാണ് ഇത് വികാരത്തെ ബാധിക്കുന്നത് ഇത് നമ്മൾക്ക് എങ്ങനെ അറിയാൻ കഴിയും ബ്രെയിന് കേടുപാടുകൾ സംഭവിച്ചവരിലാണ് ഇത് കാണാൻ കഴിയുന്നത് എലികളെ കുറിച്ചുള്ള പഠനത്തിൽ ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരുന്നു അതിനാൽ ഓഡിറ്ററി കോർട്ടെക്സ് ഓഡിറ്ററി തലാമസ് മീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഹിപ്പോ കാമ്പസ് എന്നിവ ഇതാണ് എമിക് ഡെല്ല നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ മരവിച്ച പോയേക്കാം നിങ്ങളുടെ ബ്ലഡ് പ്രഷർ മാറിയേക്കാം സ്ട്രസ്സ് ഹോർമോണുകളുടെ വ്യതിയാനം സംഭവിക്കാം സ്റ്റാർട്ടിൽ റിഫ്ലെക്സ് ഇരുട്ട് പ്രതിഫലിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം ആരൊക്കെയോ പെട്ടെന്ന് വരൂന്നു ഇരിക്കുന്നു ആരൊക്കെയോ പെട്ടെന്ന് പോകുന്നു തൊടുന്നു കുട്ടികളെ പോലെ തോന്നാം പുതിയതായി ജനിച്ച കുട്ടികൾക്ക് ആരെങ്കിലും അവരെ തൊടുമ്പോൾ ഉണ്ടാകുന്നതാണ് സ്റ്റാർട്ടിൽ റിഫ്ലെക്സ് ഇത് ഒരു പ്രാകൃത റിഫ്ലെക്സ് ആണ് നിങ്ങൾ ജനിക്കുമ്പോൾ ധാരാളം പ്രാകൃത റിഫ്ലെക്സ് ഉണ്ട് അത് സമാനമായ ഗ്രാസ്പ് റിഫ്ലെക്സ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും വേരൂന്നുന്ന റിഫ്ലെക്സ് ബ്രെയിൻ പക്വത പ്രാപിക്കുമ്പോൾ ഈ റിഫ്ലെക്സുകളെല്ലാം മൂടുന്നു സാധാരണയായി നിങ്ങൾക്കിത് ഉണ്ടാവില്ല ഭയം ഉളവാക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ സ്റ്റാർട്ടിൽ റിഫ്ലെക്സ് ലേക്ക് തിരികെ പോകുന്നു പ്രായമുള്ള ആളുകളിൽ ബ്രെയിൻ ഡിമെൻഷ്യയിൽ ആയിരിക്കുമ്പോൾ ഇത്തരം ഒരു പാട് ഫ്രന്റൽ വസ്തുതകൾ പുറത്തുവരാറുണ്ട്

നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാം എല്ലാം അവർ എന്തെങ്കിലും മറുപടി പറയാം നിങ്ങൾ എന്താണ് കഴിച്ചത് എവിടെയാണ് പോയത് എന്ന് ചോദിച്ചാൽ ആഹാരം ആഹാരം ആഹാരം എന്ന് തന്നെ അവർ പറഞ്ഞു കൊണ്ടേയിരിക്കും കാരണം എന്താണ് ബ്രെയിൻ രൂപംകൊള്ളുന്ന സമയത്ത് പഠനത്തിനുവേണ്ടി വീണ്ടും വീണ്ടും ഫയർ ചെയ്തു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇതെല്ലാം കണ്ടെത്തുന്നത് കുട്ടികൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നേയില്ല എന്ന് ഒരുപാട് ആളുകൾ പരാതി പറയാറുണ്ട് നമ്മൾ അവരോട് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും യഥാർത്ഥത്തിൽ അവർ അല്ല അത് ചെയ്യുന്നത് അവരുടെ ബ്രെയിൻ ആണ് അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുമ്പോൾ അവർക്ക് ആനന്ദം ലഭ്യമാകുന്നു പഠനത്തിനുവേണ്ടി ബ്രെയിൻ അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലൂടെ അറിവ് ഏകീകരിക്കാൻ ദൃഢംപെടുത്താൻ കഴിയുന്നു അടുത്ത തവണ അവരെ തെറ്റിദ്ധരിക്കരുത് ഇതാണ് എനിക്ക് ഡിമൻഷ്യയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇത് അൽഷിമേഴ്സ് ആണ് ഇതാണ് ബ്രെയിൻ അത് ചുരുങ്ങുന്നു ഞാൻ നിങ്ങളോടു പറഞ്ഞതുപോലെ 16 17 വയസ്സ് വരെ നിങ്ങളുടെ ബ്രെയിൻ വളരുന്നു സിനാപ്സിൽ പ്രൂണിങ് ആരംഭിക്കുന്നു പിന്നീട് അത് ചുരുങ്ങാൻ തുടങ്ങുന്നു ചില ആളുകളിൽ ഈ പ്രക്രിയ വളരെ വേഗത്തിൽ ചെറിയ പ്രായത്തിലെ ആരംഭിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ 4 മുതൽ 7വരെയുള്ള ഹെർട്സ് സഞ്ചരിക്കുന്നു ഈ രീതിയിലുള്ള മാറ്റമാണ് ഇതിന് സംഭവിക്കുന്നത് ഈ അക്ഷരങ്ങൾ നിങ്ങൾ എടുത്തതായി ചിന്തിക്കുക ഈ അക്ഷരങ്ങളെകുറിച്ചുള്ള മെമ്മറി ഒരു കൂട്ടം പിരമിഡിൽ സെല്ലുകളാണ് അത് ഫയർ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഒരക്ഷരം ഒരു ഗാമ സൈക്കിളാണ് ഇത് 30 40 ഹെർട്സ് ഉള്ള ഗാമ സൈക്കിളാണ് ഇവ 4 മുതൽ 7 ഹെർട്സ് വരെയും 4 മുതൽ 7 വരെ പറയുകയാണെങ്കിൽ 123456712345 ഈ 7 കാര്യങ്ങളുടെ ഗ്രൂപ്പുകൾ മിക്കവാറും സംയോജിപ്പിച്ചിരിക്കുന്നു ഓരോ ഗാമാ സൈക്കിളും യൂണികോഡ് സാധ്യമായതാണ് ഇത് നടക്കുന്നു ഇത് സെല്ലുകളിലൂടെ പ്രതികരിക്കുന്നു അത് ഹിപ്പോക്യാംപസിലെ പിരമിഡിൽ സെല്ലിലൂടെയാണ് ആയതിനാൽ ഈ സൈക്കിളുകൾ എപ്പോഴെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു അപ്പോഴെല്ലാം ഫയറിങ് നടക്കുന്നു അതിനാൽ ഇത് ഗാമയുടെയും തീറ്റയുടെയും ഓസിലേഷൻറെ സങ്കലനമാണ് എങ്ങനെയാണ് ഈ മോഡൽ പ്രവർത്തിക്കുന്നതിനുള്ള പ്രതിനിധാനം ആണിത് മെമ്മറി സെറ്റിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് ടാസ്ക് വർദ്ധിക്കുന്നതിനിടയിൽ പ്രതികരണ സമയം കാണിക്കുന്നു അതിനാൽ ഒന്നോ രണ്ടോ വാക്കുകൾ ഉണ്ടെങ്കിൽ മെമ്മറി സെറ്റിന്റെ വലുപ്പത്തിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും ഒരൊറ്റ അക്ഷരം നൽകാനുള്ള പ്രതികരണ സമയം വർദ്ധിക്കുന്നു കാരണം ബ്രെയിൻ അക്ഷരത്തെ കണ്ടെത്തുന്നതിനു വേണ്ടി ആ സെറ്റ് മുഴുവൻ സ്കാൻ ചെയ്യേണ്ടിവരുന്നു പക്ഷേ അതിലെ ഏറ്റവും രസകരമായ കാര്യം എന്തെന്നാൽ പോപ്പുലർ സൈക്കോളജിയിൽ പോപ്പുലർ ലിറ്ററേച്ചർ പറഞ്ഞിരിക്കുന്നത് ബ്രെയിൻ 4 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളായിട്ടാണ് മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ തീറ്റ റേഞ്ച് എന്ന് പറയുന്നത് 4 മുതൽ 7 വരെയാണ് അതിനാൽ ഓരോ സ്പൈക്കും ഒരു അക്ഷരത്തിനോ ആ മെമ്മറിയുടെ ഒരു സവിശേഷതയ്ക്കോ യോജിക്കുന്നുണ്ടോ എന്നാൽ ഇത് കൂടുതൽ എടുത്താൽ അത് വൈദ്യുത പ്രവർത്തനത്തെക്കുറിച്ചല്ല സ്വിച്ചിങ് നടക്കുന്ന കെമിക്കൽസ് വീണ്ടും ഉള്ളിലേക്ക് വരുന്നു ലോങ്ങ് ടൈം പൊട്ടൻഷ്യൽ എന്നറിയപ്പെടുന്ന ഒന്ന് അവിടെയുണ്ട് ഈ ലോങ്ങ് ടൈം ഡിപ്രീസിയേഷൻ സാധ്യതയുണ്ട് ഇത് സിനാപ്റ്റിക് രൂപവത്കരണത്തിന് കാരണമാകുന്നു അതിലൂടെ ഇവിടെ ലോങ്ങ് ടൈം സ്റ്റോറേജ്ൻറെ വർദ്ധനവിനും കാരണമാകുന്നു ഡിപ്രീസിയേഷൻ സെറ്റിനെ തടയുകയും ഇവ വംശനാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇതിനു ഉത്തരവാദിയായ ന്യൂറോ കെമിക്കൽ ആണ് ഗ്ലൂട്ടാമേറ്റ് N M D A A M P A റിസപ്റ്റർസ് ലൂടെയാണ് ഇത് നടക്കുന്നത് ഇവ ഹിപ്പോക്യാമ്പസിലാണ് ഉള്ളത് ഇതാണ് ഹിപ്പോകാമ്പസ് ഏരിയ CA1 ഹെബ്ബിയൻ പഠനത്തിലൂടെ പ്രിസിനാപ്റ്റിക് പോസ്റ്റ്സിനാപ്റ്റിക് ഫയറിംഗ് ഗ്ലൂട്ടാമേറ്റ്ലൂടെ എത്തി കൂടുതൽ പ്രവർത്തനക്ഷമം ആകുന്നു ഈ ദീർഘകാല പൊട്ടൻഷ്യേഷൻ എന്നാൽ കാൽസ്യത്തിന്റെ സഹായത്തോടെ സർക്യൂട്ടുകളെ പ്രതിഫലിപ്പിക്കുന്നു ഗ്ലൂട്ടാമേറ്റ് സിനാപ്റ്റിക് മാറ്റങ്ങളിലേക്ക് നയിക്കുന്നു അങ്ങനെയാണ് ഒരു ദീർഘകാല മെമ്മറി രൂപപ്പെടുന്നത് എൽടിപിക്ക് മുമ്പും ശേഷവും ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി സിനാപ്സസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഹിപ്പോകാമ്പസ് ന്യൂറോൺ കാൽസ്യം വർദ്ധിക്കുന്നതായി കാണിക്കുന്നു സ്പൈനുകളും ഇരട്ടിക്കുന്നതായി കാണുന്നു ഇത് ലോങ്ങ് ടൈം പൊട്ടൻഷ്യഷൻ മുമ്പും ഇത് ശേഷവും സംഭവിക്കുന്നു അതിൻറെ ആകൃതിയിൽ ഒരു കൃത്യമായ മാറ്റമുണ്ട് എന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരിക്കൽ അത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ലോങ്ങ് ടേം മെമ്മറി ഉണ്ടാകുന്നു ഇതാണ് സിനാപ്റ്റിക് മാറ്റങ്ങൾ ഇത് പഠനത്തിനു മുൻപ് തന്നെ മെമ്മറിയെ സഹായിക്കുന്നു ഇതാണ് ആക്സൺ ടെർമിനൽ ഡെൻഡ്രൈറ്റ് സ്പൈൻ സിനാപ്റ്റിക് ഉണ്ടാകുന്ന മാറ്റം എന്തെന്നാൽ നിങ്ങൾ കാണുന്ന മരം പോലെയുള്ള ഡെൻഡ്രൈറ്റുകളാണ് അവ എങ്ങനെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കുന്നു അവിടെ ഒരു പിഎസ്പി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ ഉണ്ട് അവിടെ ഒരു രാസ സ്രവണം നടക്കുന്നു അതായത് പഠനത്തിനുശേഷം എന്താണ് സംഭവിക്കുന്നത് കൂടുതൽ രാസസ്രവണം നടക്കുന്നു കൂടുതൽ രാസവസ്തു ആകുന്നു പോസ്റ്റ് കൂടുതൽ സെൻസിറ്റീവ് ആകുന്നത് കൂടുതൽ കെമിക്കൽ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അതിനാൽ പ്രിസൈനാപ്റ്റിക് ഏരിയകളിൽ വലിയ പോസ്റ്റുണ്ട് ഇത് പഠനത്തിനു മുൻപാണ് കൂടുതൽ രാസവസ്തുക്കൾ സ്രവിക്കുന്നത് കാരണം രൂപപ്പെടുന്ന പുതിയ സിനാപ്റ്റിക്സ് ആണിത് അതിനാൽ കൂടുതൽ മേഖലകൾ അവരെ പഠിപ്പിക്കേണ്ടതുണ്ട് കൂടുതൽ മേഖലകൾ വികസിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെയാണ് സിനാപ്റ്റിക് മാറ്റമുണ്ടാകുന്നത് അതിനാൽ ഞാൻ തീറ്റ താളത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിനാൽ കെമിക്കൽ ഗേറ്റിംഗ് ഗ്ലൂട്ടാമേറ്റ് ഗാബ എന്നിവയിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത് ഇതാണ് തടസ്സപ്പെടുത്തുന്ന ഭാഗം ഗാബ കൂടുതൽ ആക്ടീവ് ആകുമ്പോൾ ലോങ്ങ് ടൈം ഡിപ്രഷനും കാൽസ്യം ഉപയോഗിച്ചുള്ള ഗ്ലൂട്ടാമേറ്റ് സംഭവിക്കുന്നു ഹിപ്പോകാമ്പസിലെ CA3 ഏരിയയിൽ എങ്ങനെയാണ് തീറ്റയെ വീണ്ടെടുക്കുന്നത് ഹെബ്ബിയൻ വസ്തുതകൾ അനുസരിച്ച് CA1 തിരിച്ചെടുക്കുന്നതിലൂടെ ഈ സിനാപ്റ്റിക്സ് ഉണ്ടാകാം കാരണം സിഎയ്ക്ക് ഒരു ഫീഡ്ബാക്ക് സംവിധാനമുണ്ട് ട്രിഗറിംഗ് പോയിന്റുകളോ മെമ്മറിയുടെ പകർപ്പോ അതിലുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഇവയാണ് സ്പൈക്കുകൾ അതിനാൽ ഹിപ്പോകാമ്പസ് ആയ മീഡിയൽ ടെമ്പറൽ ലോബിനെയും തിങ്കിംഗ് ബ്രെയിൻ ആയ പ്രീഫ്രോണ്ടൽ ലോബിനെയും ഇത് ഏകോപിപ്പിക്കുന്നു അതിനാൽ ഇവ രണ്ടും തമ്മിലുള്ള പ്രവർത്തനം 50 മില്ലി സെക്കൻഡ് മുതൽ 120 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 100 മുതൽ 200 മില്ലി സെക്കൻഡ് ദൈർഘ്യത്തിൽ തിരിച്ചെടുക്കാൻ സഹായിക്കുന്നു നിങ്ങൾ ഇതിനെ ബിഹേവിയർ ആയിട്ട് മാറ്റം ചെയ്യപ്പെടുമ്പോൾ ഏതുതരം മെമ്മറിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ഡിക്ലറേറ്റീവ് മെമ്മറി ആണോ അതോ നോൺ ഡിക്ലറേറ്റീവ് മെമ്മറി ആണോ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾ ചേരുന്നതാണ് ജീവിതത്തിലെ പല ഘട്ടങ്ങൾ വസ്തുതകളുടെ അർത്ഥതലങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റത്തിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു പ്രൊസീജറൽ ലേണിങ് എന്ന് പറയുന്നത് ഒരു സ്കിൽ ലേണിങ് തന്നെയാണ് നിങ്ങളോട് സെറിബല്ലത്തിൽ പറഞ്ഞതുപോലെ ഇത് ബാസൽ ഗാംഗ്ലിയയുടെ ആഴമേറിയ ഭാഗമാണ് അതിൽ ധാരാളം ഇംപ്രിൻറ്കളും മോട്ടോർ മൂവ്മെൻറ്കളും ഉണ്ട് നമ്മൾ സംസാരിച്ചതുപോലെ എല്ലാം ഈ പ്രൈമിംഗ് ക്ലാസിക്കൽ കണ്ടീഷനിംഗ് എന്നിവയിലൂടെ ആണ് കടന്നു പോകുന്നത് ഇപ്പോൾ മെമ്മറിയും ആയി ഏകദേശം ബന്ധപ്പെട്ടിരിക്കുന്നു വിഷ്വൽ സ്കെച്ച്പാടും ഓഡിറ്റോറി സ്കെച്ച്പാടും നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്നുണ്ട് ഇനിയുള്ള വലിയ ചോദ്യം എന്തെന്നാൽ എന്താണ് ചിന്ത പ്രവർത്തനം എന്ന് പറയുന്നത് ചിന്തയുടെ ഭാഷയാണെന്ന് നിങ്ങൾക്കറിയാം മൃഗങ്ങൾ ചിന്തിക്കാറുണ്ടോ ചിത്രങ്ങളിൽ ചിന്ത എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ ആർട്ടിസ്റ്റുകൾ വരയ്ക്കുമ്പോൾ ചിന്തിക്കാറുണ്ടോ സംഗീതജ്ഞർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഗാനരചയിതാക്കളെക്കുറിച്ച്ല്ല പറഞ്ഞത് സംഗീതം സൃഷ്ടിക്കുന്ന ആളുകളുടെ മനസ്സ് എങ്ങനെയാണ് സംഗീതം സൃഷ്ടിക്കുന്നത് അത് ചിന്തയാണോ അതോ മറ്റെന്തെങ്കിലുമാണോ സംഗീതം ചിന്തയിൽ നിന്ന് വ്യത്യസ്തമാണോ പെയിന്റിംഗ് ചിന്തയിൽ നിന്ന് വ്യത്യസ്തമാണോ ദൃശ്യവൽക്കരിക്കുന്നത് ചിന്തയിൽ നിന്ന് വ്യത്യസ്തമാണോ അല്ലെങ്കിൽ അവ ചിന്തയുടെ വഴികൾ മാത്രമാണോ എന്റെ സുഹൃത്തുകളിലൊരാൾ എന്നെ ഓർമ്മിപ്പിച്ചത് പോലെ ചിന്ത നമ്മൾക്ക് വ്യക്തമായ രീതിയിൽ കാണിക്കാൻ കഴിയാത്തത് എന്താണെന്ന് നമുക്കറിയില്ല പക്ഷേ ചിന്ത നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റുന്നു വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ലിംബിക് ഏരിയ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയില്ലേ എന്നുള്ളതാണ് ചോദ്യം ഫ്രണ്ട് കോർട്ടക്സിൽ പരിക്കേറ്റപ്പോൾ ലൈംഗിക പെരുമാറ്റവും വൈകാരിക നിലവാരവും എല്ലാം മാറ്റം വന്നു എന്നും ഞാൻ പറഞ്ഞപ്പോൾ ഫിനസ് ഗേജ് എന്ന പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു ബ്രെയിനിൻറെ ലാറ്ററൽ പാർട്ടിനുണ്ടായ തകരാർ വ്യത്യസ്തമായ വ്യക്തിത്വത്തിന് കാരണമാകുന്നു ഫ്രണ്ടൽ ബ്രെയിനിൻറെ ആന്തരിക ഭാഗത്തിന് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ സ്യൂഡോ സോഷ്യോ പാത്തിക് അറിയപ്പെടുന്ന വ്യത്യസ്തമായ വ്യക്തിത്വം രൂപംകൊള്ളുന്നു ഇതൊരു ആൻറി സോഷ്യൽ വ്യക്തിത്വമാണ് സ്യൂഡോ ഡിപ്രസിവുമാണ് ഡിപ്രഷനിൽ മെറ്റബോളിസത്തിനും ഫ്രണ്ടൽ ലോബിനും മാറ്റങ്ങൾ ഉണ്ടാകും ഡിപ്രഷൻ ശരിക്കും മാനസികാവസ്ഥയെ തെറ്റിക്കുന്നു ആർക്കെങ്കിലും ഹൃദയാഘാതമുണ്ടായാൽ സെറിബ്രൽ വാസ്കുലർ അപകടമുണ്ടാകുമ്പോൾ രക്ത വിതരണത്തെ അത് തടസ്സപ്പെടുത്തുന്നു ഇടതുവശത്തുള്ള ഫ്രന്റൽ ലോബിലേക്ക് അതിനോട് കൂടുതൽ അടുക്കുമ്പോൾ വിഷാദം കൂടുതൽ കഠിനമായിരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഇടതുഭാഗത്ത് ഉണ്ടെങ്കിൽ വലതുവശത്ത് വരുന്നതിനേക്കാൾ ഇടത് വശത്തെ അടിച്ചമർത്തുന്നുണ്ടോ അല്ലെങ്കിൽ വലതുവശത്ത് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇടത് വശത്ത് അല്ലെങ്കിൽ മാനിയയിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്നു നമ്മൾക്ക് ഇത് അറിയില്ല ഇടതുവശത്ത് ഒരു ലീഷൻ ഉണ്ട് അവിടെ ഡിപ്രഷൻ ഉണ്ടാകുന്നു അതായത് വലതുവശം എന്നുപറയുന്നത് ഓവർ ആക്ടീവ് ആണ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം ഇത് നിങ്ങളുടെ വലതു ഭാഗത്തിനാണ് സംഭവിക്കുന്നതെങ്കിൽ മാനിയയെ തടയപ്പെടുമോ വൈകാരികത ഇന്നും ഗവേഷണത്തിൻറെ പ്രധാനഘടകമായി തുടരുന്നു അതിനുള്ള ഉത്തരം നൽകാൻ നമ്മൾക്ക് കഴിയില്ല അവിടെ തകരാറുകൾ ഉണ്ടെന്നറിയാം നമുക്കറിയാം അത് വൈകാരികതയെ കുറിച്ച് പിന്നീട് സംസാരിക്കുന്ന ഉണ്ടാകാം അതിനാൽ ഈ മെമ്മറി സിദ്ധാന്തം അനുസരിച്ച് ഭാഷ എവിടെ നിൽക്കുന്നു എക്സിക്യൂട്ടീവ് പ്രവർത്തനം എവിടെ നിൽക്കുന്നു ഫ്രണ്ടൽ ഏരിയയിൽ ബ്രോക്കയുടെ അഫാസിയ നാശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ ഇത് ടെമ്പറൽ ആണ് ഇതൊരു കണ്ടക്ഷൻ അഫാസിയ പോലെയാണ് അവർക്ക് സംസാരിക്കാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും ഒരേസമയം അത് ചെയ്യാൻ അവർക്ക് കഴിയില്ല ശ്രദ്ധാപൂർവ്വം അവയെല്ലാം ഒരുമിച്ചു ചേർന്ന് വർക്കിംഗ് മെമ്മറി ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ആരംഭിക്കുന്നതിൽ തടയുന്നതിൽ പ്രവർത്തിക്കുന്നു തടയുന്നതിനെ കുറിച്ച് ധാരാളം കോർട്ടിക്കൽ ഫംഗ്ഷൻ ഉണ്ട് ബ്രെയിനിലെ തകരാറുമൂലം നിങ്ങൾ ഒരു മൃഗത്തെ പോലെ അക്രമാസക്ത ആകുമ്പോൾ ഒരു ക്ലൂവർ ബസി സിൻഡ്രോം ഉണ്ടാകുന്നു താൽക്കാലിക ലോബിലെ പോലെ ബൈലാറ്ററൽ തകരാർ സംഭവിക്കുമ്പോൾ ആളുകൾ ഒരുപാട് കഴിക്കുന്നു അവർ എല്ലാം അവരുടെ വായിലേക്ക് ഒരുപാട് വെക്കുന്നു സെക്ഷ്വലി ആക്ടീവ് ആകുന്നു ചില ആളുകൾ അബ്നോർമൽ അല്ല അവർക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നു എന്നത് അവർ പലപ്പോഴും ഉറപ്പ് തരുന്നുണ്ട് അവരുടെ ഫ്രോണ്ടൽ നെറ്റ്വർക്കിൽ ഒരു പ്രശ്നമുണ്ട് പ്രീ ഫ്രോണ്ടൽ നെറ്റ്വർക്കിലും പ്രശ്നമുണ്ട് അത് അവരെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല സോഷ്യോപാത്ത് കുറ്റവാളികൾ അല്ലെങ്കിൽ ഇമ്പൾസീവ് എന്ന് വിളിക്കുന്ന ആളുകളുടെ നെറ്റ്വർക്ക് തകരാറിലാണ് അതിൽ ഒരു അപകടസാധ്യതയുണ്ട് ഒരു വലിയ അപകടസാധ്യതയുണ്ട് നമ്മൾ ഇതെല്ലാം പറയുകയാണ് എങ്കിൽ നീതിന്യായ വ്യവസ്ഥകൾക്ക് എന്ത് സംഭവിക്കും സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് എന്ത് സംഭവിക്കും നിയന്ത്രണങ്ങൾക്ക് എന്ത് സംഭവിക്കും എല്ലാവർക്കും പറയാം എൻറെ നെറ്റ്വർക്ക് തകരാറിലാണ് അതുകൊണ്ട് സംഭവിച്ചു എന്ന് അതുകൊണ്ട് ആരും തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കില്ല അതിനാൽ ഈ കാരണത്താലാണ് ഞങ്ങൾ ഇപ്പോഴും നെറ്റ്വർക്ക് തലത്തിൽ പ്രവർത്തിക്കാത്തത് കാരണം നമ്മുടെ അടിസ്ഥാന നെറ്റ്വർക്ക് ചിലപ്പോൾ ഒരു മൃഗത്തെ പോലെ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന ഇൻസ്റ്റിഗ്റ്റ് ഉണ്ടെങ്കിലും ഇതിൻറെ എല്ലാ തലങ്ങളും സമൂഹത്തിൻറെ മൂല്യവ്യവസ്ഥ ധാർമ്മികത കുറ്റബോധം എന്നിവയാൽ പരുവപ്പെടുത്തിയിരിക്കുന്നു ഇവയെല്ലാം അബ്സ്ട്രാക്റ്റ് പദങ്ങളാണ് അടിസ്ഥാന ഹയർ നെറ്റ്വർക്കുകളും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ എന്തായാലും നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിംഗ്ക്ച്വൽ നെറ്റ്വർക്ക് ആണ് നിങ്ങളുടെ ഹയർ നെറ്റ്വർക്കിനെയും നിങ്ങളുടെ വികാരങ്ങളെയും നിങ്ങളുടെ സുരക്ഷിത വലയത്തെ യും നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തൽ എന്നിവ തീരുമാനിക്കുന്നത് ഇതിൽ നിന്നുമാണ് സാമൂഹികമായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനം എടുക്കുന്നത് നിങ്ങളുടെ സമൂഹത്തിൽ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇവയെല്ലാം നമ്മൾ ആരംഭിക്കുന്ന താമസിക്കുന്ന ആസൂത്രണം ചെയ്യുന്ന ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുന്ന നിയന്ത്രിക്കുന്ന സ്ഥിരീകരിക്കുന്ന ആശയങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് വ്യക്തമായി പറഞ്ഞാൽ ഇതാണ് ടെമ്പറലി ഓർഡറിങ് ഓർബിറ്റോഫ്രോണ്ടൽ കോർടെക്സിൽ നിങ്ങൾ കാണുന്ന തരത്തിലുള്ള തടസ്സപ്പെടുത്തലാണിത് അതിനാൽ നമുക്ക് ഈ സംഭാഷണത്തിൽ ഇവിടെ നിർത്താം ഞാൻ നിങ്ങളോടു പറഞ്ഞതുപോലെ ഇതു ഒരു നിമിഷത്തേക്ക് മാത്രം ഉള്ളതാണ് അതിനാൽ ഇവിടെ നമുക്ക് നിർത്താം ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു ഇതാണ് ബ്രോക്കസ് ഏരിയ സംഭാഷണം എന്നുപറയുന്നത് പ്രധാനമായും മോട്ടോർ പ്രവർത്തനമാണ് വാക്കുകൾ നിർമ്മിക്കപ്പെടുന്നു അവ സ്പീച്ച് മോട്ടോർ ഏരിയയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു അവിടെ നിന്നും ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിലൂടെ പുറത്തേക്ക് വരുന്നു അതിനാൽ അടിസ്ഥാനപരമായി ഇത് ലളിതവൽക്കരണത്തിന് മുകളിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നു വലിയൊരു വസ്തുതയുണ്ട് അത് ഉള്ളിലേക്ക് പോകുന്നു നമുക്ക് ഇവിടെ വച്ച് നിർത്താം അടുത്ത പ്രഭാഷണത്തിൽ എങ്ങനെയാണ് ബ്രെയിൻ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വിശദമായി പറയാം